ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ നമുക്ക് സിമുലേഷൻ പ്രക്രിയയിലൂടെ കടന്നു പോകാം നമ്മൾ ഒരു സ്കീമാറ്റിക് വരയ്ക്കും നമുക്ക് ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് എടുക്കാം ഉദാഹരണമായി നെറ്റ് ലിസ്റ്റ് ഉത്പാദിപ്പിക്കുകയും അത് സിമുലേറ്റ് ചെയ്യാൻ ngSpice ഉപയോഗിക്കുക വേ ഫോം കാണാം വേ ഫോം പ്ലോട്ട് ചെയ്യുക സർക്യൂട്ടിന്റെ ഉള്ളിൽ നേടാൻ ശ്രമിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമുലേഷൻ പക്വതയുള്ള ആളുകൾക്കുള്ളതാണ് സിമുലേഷന്റെ മൂല്യങ്ങളോ സിമുലേഷന്റെ ഫലങ്ങളോ ഞങ്ങൾ ഉൾപ്പെടുത്തിയ മോഡലുകൾ പോലെ മികച്ചതാണ് അതിനാൽ പലപ്പോഴും ഞങ്ങൾ ഡയോഡുകൾക്കോ ട്രാൻസിസ്റ്ററുകൾക്കോ വിവിധ ഘടകങ്ങൾക്കോ അനുയോജ്യമായ മാതൃകകൾ നൽകുമെന്നും സിമുലേഷൻ തരംഗരൂപങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഓർക്കുക അത് നിങ്ങൾക്ക് യഥാർത്ഥ സിസ്റ്റത്തിനായി ഓസിലോസ്കോപ്പിൽ ലഭിക്കും എന്നിരുന്നാലും കാര്യമായ വ്യത്യാസം ഉണ്ടാകും കാരണം നിരവധി അനിശ്ചിതത്വങ്ങളും ആദർശരഹിതങ്ങളും ഉണ്ട് അവ സിമുലേഷനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല സിസ്റ്റത്തിന്റെ ആശയത്തെക്കുറിച്ചോ പ്രവർത്തനത്തെക്കുറിച്ചോ നിങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ച നൽകുന്നതിനാണ് സിമുലേഷൻ എന്ന് ഓർമ്മിക്കുക വിവിധ ഘടകങ്ങളുടെ റേറ്റിംഗ് രൂപകൽപ്പന ചെയ്യാൻ ഇത് ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ അവയെ ഹാർഡ്വെയറിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ പരീക്ഷണം ഫിസിക്കൽ ഹാർഡ്വെയറും യഥാർത്ഥ തരംഗരൂപങ്ങളും യഥാർത്ഥ ഹാർഡ്വെയറിലെ ഫലങ്ങളും മനസ്സിലാക്കുക അതിനാൽ സിമുലേഷനും സിമുലേഷൻ ഫലങ്ങളും കൃത്യതയോടെ ഉപയോഗിക്കുക അത് മനസിലാക്കുന്നതിനും ഡിസൈൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക അതിനാൽ ഇത്തരത്തിലുള്ള പരിമിതികളോടെ നിങ്ങൾ സിമുലേഷനുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അതിനാൽ സ്കീമാറ്റിക്സ് ഉത്പാദിപ്പിക്കുന്നതിന് gEDAയും സിമുലേറ്റിംഗിനായി ngSpice ഉം ഉപയോഗിച്ച് നമുക്ക് ഈ സിമുലേഷൻ ജോലി ആരംഭിക്കാം gEDA സ്കീമാറ്റിക് തുറന്ന് നമുക്ക് സിമുലേഷൻ പ്രക്രിയ ആരംഭിക്കാം കഴിഞ്ഞ തവണ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ടെർമിനൽ ഉപയോഗിച്ചിരുന്നു പക്ഷേ നമുക്ക് ഷോ ആപ്ലിക്കേഷൻസ് മെനുവിലേക്കും പോകേണ്ടതുണ്ട് gEDA സ്കീമാറ്റിക് സ്റ്റാർട്ട് അപ്പ് ഉണ്ട് ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് gEDA ഓപ്പൺ അപ്പ് ലഭിക്കും നമ്മൾ ആരംഭിച്ചതുപോലെ ലൈറ്റ് ബാക്ക്ഗ്രൌണ്ട് gEDA ഉണ്ട് കഴിഞ്ഞ തവണ അത് സജ്ജീകരിച്ചു ചലനാത്മകമായി സൂം ഇൻ ചെയ്യാനും ഔട്ട് ചെയ്യാനും മൌസ് വീൽ ഉപയോഗിക്കുക അതിനാൽ ആദ്യം നമുക്ക് അതിനെ ഒരു റക്റ്റിഫയർ ഡോട്ട് സ്കീമാറ്റിക് എന്ന് നാമകരണം ചെയ്യാൻ കഴിയുന്ന ഫയലായി സേവ് ചെയ്യാം അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഫയലിലേക്ക് പോകുക എന്നതാണ് ഇവിടെ ഈ ഡിസി ഡിസി ഉള്ളതിനാൽ നമ്മൾ ഒരു സേവ് ചെയ്യുന്നു ഞാൻ DC DC ക്ലീൻ ചെയ്തു മറ്റൊന്നും ഇല്ല നമുക്ക് അതിനെ rectifier sch എന്ന് പേരിടാം അതിനാൽ അത് ആ സ്ഥലത്ത് സ്ഥാപിക്കാം അടുത്തതായി നമ്മൾ ഘടകങ്ങളിലേക്ക് പോയി ലൈബ്രറികളിൽ നിന്ന് ഘടകങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക അതിനാൽ ആദ്യം നമുക്ക് പോയി ഡയോഡ് സോഴ്സ് കപ്പാസിറ്ററുകൾ ലോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന അകോംസ് ഫോൾഡർ ലൈബ്രറി എന്നിങ്ങനെയുള്ള സർക്യൂട്ട് ഘടകങ്ങൾ വരയ്ക്കാം അവസാന വിഭാഗത്തിൽ പൊതുവായ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ജനറിക് മോഡലുകൾ ആയതിനാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ സിമുലേഷനിൽ ഉപയോഗിക്കാം നമുക്ക് കപ്പാസിറ്റൻസ് എടുക്കാം നമുക്ക് ഒരു ഡയോഡ് ഒരു പവർ ഡയോഡ് ആവശ്യമാണ് നമുക്ക് ആവശ്യമുള്ളത് നാലെണ്ണമാണ് അതിനാൽ നമുക്ക് കോർ ഇൻസ്റ്റാൾ ചെയ്യാം ഉപകരണങ്ങൾ തിരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ER ആണ് ഞാൻ ഈ ഉപകരണവും തിരിക്കും അപ്പോൾ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് ആവശ്യമാണ് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സ്ഥാപിക്കും ട്രാക്ക് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാൻ എനിക്ക് മറ്റൊരു റെസിസ്റ്റൻസ് കൂടി ആവശ്യമാണ് അല്ലാത്തപക്ഷം നിങ്ങൾ ഇതെല്ലാം കൂടിചേരുമ്പോഴുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടും അതിനാൽ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ അത് ഇവിടെ സ്ഥാപിക്കും നമ്മൾ അത് സർക്യൂട്ടിലേക്ക് ശരിയാക്കും തുടർന്ന് നമുക്ക് സോഴ്സ് ആവശ്യമുണ്ട് അതിനാൽ സ്പൈസ് സിമുലേഷൻ ഘടകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന റിസോഴ്സ് ലൈബ്രറി ആണ് സോഴ്സ് ഒരു സൈൻ സോഴ്സാണ് നമ്മൾ ഒരു സൈൻ സോഴ്സ് തിരഞ്ഞെടുക്കും ഇവിടെ സ്പൈസ് ഉൾപ്പെടുന്ന ഡയറക്ടറി ഉള്ള ഒരു ഇനം കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന മോഡലുകളുടെ ലൈബ്രറിയും ഇഷ്ടാനുസൃത മോഡലുകളും അടങ്ങുന്ന ഒരു ഫയൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ അത് നമ്മുടെ ലൈബ്രറിയായതുകൊണ്ട് നമ്മൾ ഫയലിന് ഒരു പോയിന്റർ നൽകും നമ്മുടെ ഇഷ്ടാനുസൃത ലൈബ്രറി അടുത്തതായി നമ്മൾ പവർ റെയിൽസ് ലൈബ്രറിയിൽ നിന്ന് ജനറിക് എടുക്കേണ്ടതുണ്ട് സർക്യൂട്ടിലെ ഏതെങ്കിലും പോയിന്റുകളുടെ പൊട്ടൻഷ്യലുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ചിഹ്നത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ജനറിക് ആണ് ഇത് നമ്മൾ ഇത് ഒരു ഗ്രൌണ്ട് സിംബലിൽ സൂക്ഷിക്കും ഇത് പ്രധാനമാണ് ഒരു ഗ്രൌണ്ട് സിംബൽ സ്പൈസ് ഇല്ലാതെ ഇത് പ്രവർത്തിക്കില്ല അതിനാൽ അവയിൽ മിക്കതും സ്ഥാനത്ത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നമുക്ക് ഈ ഘടകങ്ങൾ സ്ഥാനം നിശ്ചയിക്കാം അതിനാൽ ഞാൻ ഇവിടെ ഉറവിടം നൽകട്ടെ എനിക്ക് ഒരു സീരീസ് ഇംപെഡൻസ് ഉണ്ടെന്നിരിക്കട്ടെ ഇത് വളരെ ചെറിയ ഇംപെഡൻസ് ആയിരിക്കും നമുക്ക് ഡയോഡുകൾ ഒരു ഫുൾ ബ്രിഡ്ജ് സ്വഭാവത്തിന്റെ രൂപത്തിൽ സ്ഥാപിക്കാം അവയെ സ്ഥാപിക്കുക തുടർന്ന് നിങ്ങൾക്ക് ഇത് പിന്നീട് ഇതുപോലെ ക്രമീകരിക്കാം പിന്നെ ഒരു ഡയോഡ് കൂടി അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് ഇതുപോലെ സ്ഥാപിക്കാം ഇപ്പോൾ ഞാൻ ഈ ലോഡ് റെസിസ്റ്റർ തിരിക്കുകയും ഇവിടെ ഇതുപോലെ സ്ഥാപിക്കുകയും ചെയ്യും ഇത് നമ്മൾ ഇപ്പോൾ ഉപേക്ഷിക്കും നമുക്ക് വയറുകൾ വരയ്ക്കാം ഈ ആഡ് നെറ്റ് ഉപയോഗിച്ച് വയറുകൾ വരയ്ക്കാം അതിനാൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ആഡ് നെറ്റ് മോഡിലാണ് ഈ നെറ്റിലേക്കുള്ള സെർച്ചുകളും ലിങ്കുകളും നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഞാൻ വയറുകൾ ഇടാൻ തുടങ്ങും ഇപ്പോൾ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ വയറിംഗ് പൂർത്തിയാക്കുകയാണ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക തുടങ്ങിയവ നിങ്ങൾ ഡയോഡുകൾക്കും കണക്ഷൻ ഉണ്ടാക്കുന്നു ഡയോഡുകൾ ഒരു സബ് സർക്യൂട്ട് മോഡലാണ് അതുകൊണ്ടാണ് നമുക്ക് തുടക്കത്തിൽ x അടയാളം ഉള്ളത് എല്ലാ ഉപ സർക്യൂട്ടുകളിലും തുടക്കത്തിൽ x ഉണ്ടായിരിക്കും തുടർന്ന് സോഴ്സ് ബ്രിഡ്ജിന്റെ കേന്ദ്ര ഭാഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമുക്ക് സർക്യൂട്ട് ഉണ്ട് കഴ്സറിന് മുകളിലൂടെ മാറ്റുക ഇപ്പോൾ നമുക്ക് സാധ്യമായ ഗ്രൌണ്ട് ഗ്രൌണ്ട് ഒരു വെർച്വൽ ആശയമാണ് ഇത് ഒരു ആവർത്തനമോ അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കുന്ന സീറോ നോഡോ മാത്രമാണ് നിങ്ങൾ ഇവിടെ ഗ്രൌണ്ട് നിലനിർത്തുകയാണെങ്കിൽ ഈ നോഡ് അളക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കും ഞങ്ങൾ ഇവിടെ ഗ്രൌണ്ട് നൽകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കേണ്ടതുണ്ട് ഈ നോഡിന്റെ വോൾട്ടേജിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് ആണ് ഇവിടുത്തെ വോൾട്ടേജ് സർക്യൂട്ട് വിശകലനം നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യമാണ് ഇനി നമുക്ക് ഈ ലേബലുകൾ ഇവിടെ സ്ഥാപിക്കാം ഈ ലേബലുകൾ സ്ഥാപിക്കുന്നത് പ്രധാനമാണ് കാരണം നിങ്ങൾ സ്പൈസിൽ സിമുലേഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന ലേബലുകൾക്കനുസരിച്ച് നെറ്റ് ലിസ്റ്റ് ഉത്പാദിപ്പിക്കപ്പെടും നിങ്ങൾ ലേബലുകൾ നൽകുന്നില്ലെങ്കിൽ അത് ഉപ നമ്പറുകൾ നൽകും അപ്പോൾ സർക്യൂട്ട് നോഡ് പോയിന്റുകളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ബോധപൂർവ്വം ലേബലുകൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉൾക്കാഴ്ച നേടാനും വിശകലനം ചെയ്യാനും അറിയാനും നെറ്റ് ലിസ്റ്റ് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും കഴിയും അതിനാൽ ഞാൻ ഇതിനെ നോഡ് എ എന്ന് വിളിക്കട്ടെ ഞാൻ ഇത് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്യും ഞാൻ ഇത് തിരിക്കുകയും ഈ നോഡിനെ ബി എന്ന് വിളിക്കുകയും ചെയ്യും ഇതിലൂടെ ഞാൻ എന്താണ് ചെയ്തത് ഈ നോഡിന് ഞാൻ ബോധപൂർവമായ ഒരു ലേബൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഇൻപുട്ട് ഉറവിടം പരാമർശിക്കണമെങ്കിൽ ഞാൻ Va minus Vb എന്ന് പറയും അത് ആ തരംഗരൂപത്തിന്റെ ഫലത്തിന്റെ മൂല്യം എനിക്ക് നൽകും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നോഡ് നമ്പർ നൽകാം ഈ പോയിന്റിന് ഒരു നോഡ് നൽകാം ഇതിനെ നമ്മൾ c എന്ന് വിളിക്കും നമുക്ക് ഇവിടെ ഒരു നോഡ് കൂടി നൽകാം പിന്നീട് ഒരു നോൺ ഐഡിയാലിറ്റി അവതരിപ്പിക്കാൻ ഒരു ട്രാക്ക് ഇംപെഡൻസ് സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ ഈ ലേബൽ നൽകില്ല ഞാൻ ഈ ലേബൽ നീക്കം ചെയ്യുകയും ഈ ലേബൽ o എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഇതൊരു ഔട്ട്പുട്ട് ലേബലാണെന്ന് നമുക്ക് അറിയാം അതിനാൽ നമുക്ക് ലേബലുകൾ ഗ്രൌണ്ട് ഘടകങ്ങൾ എന്നിവ സ്ഥാനത്തുണ്ട് നമ്മൾ ഇത് വയർ ചെയ്തു ഘടകത്തിന്റെ പേരുകൾ നൽകണം അതിനാൽ നിങ്ങൾ അവയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ ഇതിനെ Rs സീരീസ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും അതിന് ഒരു മൂല്യം ഉണ്ടായിരിക്കണം 100 ohms നൽകരുത് ഇത് ഒരു സീരീസ് റെസിസ്റ്റൻസ് കൂടുതലാണ് 0 1 ohm എന്നത് ട്രാക്കിന്റെ ശ്രദ്ധിക്കേണ്ട ന്യായമായ മൂല്യമാണ് നമ്മൾ പിന്നീട് സോഴ്സിലേക്ക് വരും ഈ ഡയോഡുകൾക്ക് നമ്മൾ പേരുകൾ നൽകും x d 1 നമ്മൾ ഇതിനെ d1 എന്ന് വിളിക്കും നമ്മൾ ഇതിനെ d2 d4 d3 എന്ന് വിളിക്കും അതിനുശേഷം ഡയോഡുകൾ ലേബൽ ചെയ്യും നമുക്ക് ഈ കപ്പാസിറ്റൻസ് ലേബൽ ചെയ്യാം നമ്മൾ അതിനെ ഫിൽട്ടർ കപ്പാസിറ്റൻസ് Cf എന്ന് വിളിക്കും നമ്മൾ ഇതിനെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും ഞാൻ അതിനെ Ro എന്ന് വിളിക്കും അതിനാൽ നമ്മൾ കുറച്ച് മൂല്യം നൽകും നമുക്ക് ഇത് ഏകദേശം 25 ഓംസിൽ നിലനിർത്താം അങ്ങനെ നിങ്ങൾ കുറച്ച് കറന്റ് കാണുന്നതിന് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ 1000 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ഇടും ഇതാണ് കപ്പാസിറ്റൻസ് മൂല്യം സോഴ്സിന് നമ്മൾ നൽകേണ്ട മൂല്യം നമുക്ക് ആദ്യം അതിന് Vin എന്ന് പേരിടാം അതിനാൽ നമുക്ക് Vin എന്ന പേരുണ്ട് സൈൻ ആട്രിബ്യൂട്ടിനുള്ള പരാമീറ്റർ നൽകേണ്ടതുണ്ട് അതിനാൽ ഇവിടെ നമ്മൾ സൈൻ വേവ് പാരാമീറ്റർ നൽകേണ്ടിവരും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും മാനുവൽ പരിശോധിക്കാം ng സ്പൈസ് മാനുവൽ ഡൌൺലോഡ് ചെയ്ത് നിങ്ങളുടെ അരികിൽ സൂക്ഷിക്കുന്നത് നല്ല പരിശീലനമാണെന്ന് ഞാൻ കഴിഞ്ഞ സെഷനിൽ ശുപാർശ ചെയ്തിരുന്നു സൈൻ തരംഗത്തിന്റെ പരാമീറ്റർ നോക്കാൻ അല്ലെങ്കിൽ ഞാൻ മാനുവൽ പരിശോധിക്കട്ടെ ഇതാണ് n g സ്പൈസ് മാനുവൽ നിങ്ങൾ പൊതുവായ സിന്റാക്സ് സൈൻ V ഓഫ്സെറ്റ് V ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്യുൻസി ഡിലെ ഡാംപിംഗ് ഘടകം എന്നിവ കാണുന്നു അതിനാൽ നിങ്ങൾക്ക് നിർജ്ജീവമായ സൈൻ തരംഗവും നൽകാം ഇത് സൈനിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് നോഡിനും മറ്റ് നോഡ് സൈനിനും ഇടയിലുള്ള Vin ഉണ്ട് 0 ഓഫ്സെറ്റ് 1 ആംപ്ലിറ്റ്യൂഡ് 100 meg ഫ്രീക്വൻസി നമുക്ക് നൽകേണ്ടത് 0 ഓഫ്സെറ്റ് 3 Vm റൂട്ട് 2 അല്ലെങ്കിൽ 325 ആണ് 230 റൂട്ട് 2 അല്ലെങ്കിൽ 325 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് 50 ഹെർട്സ് 0 0 അതിനാൽ അത് നമ്മൾ ചെയ്യും അതിനാൽ നമ്മൾ അതിനെ സൈൻ സ്പൈസ് കെയ്സ് ഇൻസെൻസിറ്റീവ് 0 320 വോൾട്ട് ആക്കും നമ്മൾ 50 ഹെർട്സ് ആണ് നൽകിയത് കാലതാമസമില്ലാത്തതും നിർജ്ജീവമല്ലാത്തതും ആണ് നമുക്ക് വേണ്ടത് അതിനാൽ സോഴ്സ് സജ്ജീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇൻപുട്ട് ഡയറക്ടറിയിലേക്ക് നിങ്ങൾ മൂല്യം 1 ആയും ഫയലായും നിർമ്മിക്കുന്ന നിർദ്ദേശം അതിനാൽ ഇപ്പോൾ ഞാൻ ഒരു ഫയലിൽ എഴുതാം e d t 01 dot sub എന്നത് ഇലക്ട്രോണിക് ഡിസൈൻ ടെക്നോളജിയാണ് 01 dot sub നിങ്ങൾക്ക് സൌകര്യപ്രദമായ നിങ്ങളുടെ സ്വന്തം പേര് ഉണ്ടാക്കാം അതിനാൽ ഇത് ഇവിടെ പ്രതിഫലിക്കും നിങ്ങൾ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കുമ്പോൾ ഉൾപ്പെടുന്ന ഒരു ഫയലാണിത് അതിനാൽ സേവ് ചെയ്യാൻ നല്ല സമയം ഫയൽ സേവ് ചെയ്യുക നമുക്ക് ഈ സ്കീമാറ്റിക് സർക്യൂട്ട് അടയ്ക്കാം ഇപ്പോൾ DC DC ഫോൾഡറിൽ നമുക്ക് റക്റ്റിഫയർ ഡോട്ട് s c h ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ സ്കീമാറ്റിക് തയ്യാറാണ് പക്ഷേ നമുക്ക് 2 ഫയലുകൾ കൂടി ചേർക്കേണ്ടതുണ്ട് 1 ഫയൽ ഞങ്ങൾ DC DC യിൽ സേവ് ചെയ്യും ഞാൻ അതിനെ rectifier dot cir എന്ന് നാമകരണം ചെയ്യും എല്ലായ്പ്പോഴും സ്കീമാറ്റിക് ഫയലിന്റെ പേരിന്റെ അതേ പേര് തന്നെ നിലനിർത്തുക നിങ്ങൾ അതിനെ cir എന്നാക്കി മാറ്റുന്ന വിപുലീകരണം മാത്രം അത് സേവ് ചെയ്യുക ഇവിടെ ആദ്യ വരി എപ്പോഴും ഒരു കമന്റാണ് അതിനാൽ രണ്ടാമത്തെ വരിയിൽ നിന്ന് ആരംഭിക്കുക പ്രാരംഭ വ്യവസ്ഥകൾ ഉപയോഗിച്ച് 50 മൈക്രോസെക്കൻഡ് മുതൽ 100 മില്ലിസെക്കൻഡ് വരെയുള്ള ഒരു ക്ഷണികമായ വിശകലനം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു റക്റ്റിഫയർ ഡോട്ട് നെറ്റും ഉൾപ്പെടുത്തുക ഡോട്ട് നെറ്റിനായുള്ള റക്റ്റിഫയർ ഇതുവരെ ഉത്പാദിപ്പിച്ചിട്ടില്ല എന്നാൽ നമ്മൾ അത് ഉടൻ ഉത്പാദിപ്പിക്കും അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും അതിനാൽ സിമുലേഷനായുള്ള ഈ 2 നിയന്ത്രണ പ്രസ്താവനകൾ ഇത് ഒരു പ്രത്യേക ഫയലിൽ ഉൾപ്പെടുത്തുക അത് ഒരിക്കലും നെറ്റ് ഫയലിൽ ഉൾപ്പെടുത്തരുത് ഇത്തരത്തിൽ സംഘടിതമായി ചെയ്യുന്നതാണ് നല്ലത് അതിനാൽ പിന്നീട് പരിഷ്ക്കരണത്തിനും സങ്കീർണ്ണമായ സിമുലേഷനുകൾക്കും ഇത് വളരെ എളുപ്പമായിരിക്കും അത് സംരക്ഷിച്ച് ഈ ഫയൽ ക്ലോസ് ചെയ്യുക അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റക്റ്റിഫയർ dot cir ഉണ്ട് ഒരു ഫയൽ കൂടി നമ്മൾ ഉൾപ്പെടുത്തും മോഡലുകൾ ഉൾക്കൊള്ളുന്ന edt 0 1 dot sub ഫയൽ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിനാൽ ഞാൻ ഇത് അതേ ഡയറക്ടറിയിൽ സേവ് ചെയ്യട്ടെ ഇത്തവണ e d t 0 1 dot sub അത് സേവ് ചെയ്യാം അതിനാൽ ഇത് നമ്മൾ നിർദ്ദേശിച്ചതിനനുസരിച്ച് ലിങ്ക് ചെയ്തു ഇതിൽ എന്താണ് അടങ്ങിയിരിക്കേണ്ടത് ഇത് എന്റെ ഇഷ്ടാനുസൃത ഘടകങ്ങളുടെ ഒരു ലൈബ്രറിയായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ സ്വന്തം കാര്യം ഉണ്ടായിരിക്കാം നമ്മൾക്ക് ഒരു മോഡൽ ആവശ്യമാണെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അവിടെ ഡയോഡ് ഉപയോഗിച്ചു അതൊരു പവർ ഡയോഡായിരുന്നു അതിനൊരു മാതൃക നമുക്ക് ഉണ്ടാക്കാം അതിനാൽ പവർ ഡയോഡ് 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഡയോഡിന് ഒരു മോഡൽ ഒരു ഡിഫോൾട്ട് ഡയോഡ് പവർ ഡയോഡിനുള്ള മോഡൽ സബ് സർക്യൂട്ട് മോഡൽ അതിനാൽ സ്പൈസ് എങ്ങനെ ഉപയോഗിക്കാമെന്നും സബ് സർക്യൂട്ടുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ സബ് സർക്യൂട്ടുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല കാരണം ഇത് ഈ കോഴ്സിന്റെ പരിധിക്ക് പുറത്താണ് അതിനാൽ നിങ്ങൾക്ക് സ്പൈസ് മോഡലിംഗ് അറിയാമെന്ന് ഞാൻ കരുതുന്നു മോഡലിന് ഞാൻ ഇപ്പോൾ def എന്നൊരു പേര് നൽകും ഇതൊരു ഡിഫോൾട്ട് ഡയോഡാണ് ഒരു ഡിഫോൾട്ട് ഡയോഡിന്റെ മോഡൽ ഇപ്പോൾ ഞാൻ പവർ ഡയോഡ് മാതൃകയാക്കട്ടെ ഇപ്പോൾ ഇതൊരു മാക്രോ മോഡലാണ് ഈ മാക്രോ മോഡൽ സബ് സർക്യൂട്ട് മോഡൽ ഉണ്ടായിരിക്കുന്നത് ഉപയോഗപ്രദമാണ് കാരണം ധാരാളം ആദർശങ്ങളില്ലാത്തതിനാൽ നിങ്ങൾക്ക് സബ് സർക്യൂട്ട് മോഡലിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഡിഫോൾട്ട് ഐഡിയൽ ഡയോഡിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല സംഖ്യാപരമായ ഒത്തുചേരൽ വളരെ മികച്ചതായിരിക്കും അതിനാൽ ഡോട്ട് സബ് സർക്യൂട്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ അത് ക്യാപ്സിൽ ഇട്ടത് എന്നിരുന്നാലും സ്പൈസ് സംവേദനക്ഷമമല്ല അതിനാൽ ഞാൻ ആദ്യം മോഡൽ എഴുതട്ടെ ഡയോഡ് ഒരു സാധാരണ അനുയോജ്യമായ ഡയോഡ് എടുക്കട്ടെ ഞാൻ ഒരു ഡിഫോൾട്ട് പവർ ഡയോഡ് പറയും വിവരണാത്മകമായ ചില പേരുകൾ നൽകാം ഞാൻ Rshunt 102 നും 103 നും ഇടയിൽ ഇട്ടിട്ടുണ്ട് ചില ഉയർന്ന മൂല്യം 10000 ohms കൂടാതെ Cshunt 103 101 0 01 മൈക്രോ ഫാരഡ് ഡോട്ട് മോഡൽ 0 01 Rs സീരീസ് ഉള്ള ഡിഫോൾട്ട് പവർ ഡയോഡ് d 100 pf ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഡോട്ട് എൻഡ്സ് സബ് സർക്യൂട്ടുകൾ അവസാനിപ്പിക്കുക അതിനാൽ ഇത് സബ് സർക്യൂട്ട് ആണ് അത് സേവ് ചെയ്യുക അതിനാൽ നിങ്ങൾ ഇത് തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് 101 നും 102 നും ഇടയിൽ ഡയോഡ് ഉണ്ട് നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ വീണ്ടും സീരീസ് ആയി ഒരു ഷണ്ട് കപ്പാസിറ്റൻസ് ഉപയോഗിക്കുന്നു അതിനാൽ R shunt ഉം RC shunt ഉം സീരീസിലും ഡയോഡ് dx ൽ കുറുകെയുമാണ് അതിനാൽ ഇത് ക്ലോസ് ചെയ്യാം ആവശ്യമായ ഫയലുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഇത് സ്കീമാറ്റിക്കിൽ ഇതിനകം പരാമർശിച്ചിട്ടുള്ളതാണ് ഈ റക്റ്റിഫയർ dot cir നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിശകലനമാണ് നടത്താൻ ആഗ്രഹിക്കുന്നതെന്ന് നൽകുന്നു നമുക്ക് ഇപ്പോൾ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനാൽ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കുന്നത് വളരെ ലളിതമാണ് ഒരു ടെർമിനൽ തുറക്കുക ഈ ഫയലുകളെല്ലാം അവിടെയുണ്ടെന്ന് കാണുന്നതിന് ഞങ്ങൾ ആ ഫോൾഡറിലേക്ക് ടെർമിനലിലേക്ക് പോകും അതിനാൽ നമുക്ക് സ്കീമാറ്റിക്കിൽ നിന്ന് നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കാം കമാൻഡ് G net list slash g spice s d b dash o rectifier dot net ഇത് പോലെയായിരിക്കും റക്റ്റിഫയർ dot s c h സ്കീമാറ്റിക്കിൽ നിന്ന് ഔട്ട്പുട്ട് റക്റ്റിഫയർ ഡോട്ട് നെറ്റ് ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ അത് നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കും അതിനാൽ ഒരു റക്റ്റിഫയർ ഡോട്ട് നെറ്റ് ജനറേറ്റ് ചെയ്തതായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 3 ഫയലുകളാണ് സിമുലേഷനായി ngSpice ലേക്ക് പോകുന്നത് അതിനാൽ നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ edt dot s u d ഉൾപ്പെടുത്തിയതിനാൽ edt sub ൽ നിന്ന് എടുത്ത മോഡലുകളുടെ ജനറേറ്റഡ് നെറ്റ് ലിസ്റ്റ് നിങ്ങൾ കാണുന്നു നിങ്ങൾ a യ്ക്കും b യ്ക്കും ഇടയിൽ V കാണുന്നു നമ്മൾ ലേബലുകൾ അപ്ലൈ ചെയ്യുകയും അത് ലേബൽ എടുക്കുകയും ചെയ്യുന്നു നോഡുകൾക്കുള്ള പേരുകൾ Rs Ro പവർ ഡയോഡുകളും കപ്പാസിറ്റൻസും ഇപ്പോൾ നമുക്ക് സിമുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്കുള്ള DC DC ഫോൾഡറിലുള്ള സിമുലേഷൻ പ്രക്രിയയിലൂടെ നമുക്ക് പോകാം നിങ്ങൾ ngSpice നെ വിളിക്കണം അതിനാൽ നിങ്ങൾ ngSpice rectifier dot cir എന്ന് പറയുന്നു നിങ്ങൾ റക്റ്റിഫയർ dot cir എന്ന് വിളിക്കുന്നു കാരണം സർക്കിനുള്ളിൽ റക്റ്റിഫയർ ഡോട്ട് നെറ്റ് ഉൾപ്പെടുത്തുമെന്ന് നിങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇത് ഉചിതമായി ഇവിടെ നിന്ന് നെറ്റ് ലിസ്റ്റ് എടുക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ n g സ്പൈസ് പരിതസ്ഥിതിയിലേക്ക് പോകുക അതിനാൽ n g സ്പൈസ് പരിതസ്ഥിതിയിൽ അതിന്റെ മെമ്മറി സ്പേസ് വർക്ക് സ്പേസ് എന്നിവയിലേക്ക് സർക്യൂട്ടുകൾ എടുത്തിട്ടുണ്ട് കമാൻഡ് റൺ ടൈപ്പ് ചെയ്യുക അത് സർക്യൂട്ട് പ്രവർത്തിപ്പിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നോഡുകൾ പാർട്ട് വെക്റ്ററുകൾ ഇവയാണ് നമ്മൾ അടുത്തതായി നമുക്ക് Vo അല്ലെങ്കിൽ V ഔട്ട്പുട്ട് പ്ലോട്ട്ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും റഫറൻസിനായി സ്കീമാറ്റിക് തുറക്കാൻ കഴിയും അത് ഇവിടെ നിങ്ങളുടെ അരികിൽ വയ്ക്കുക നമ്മൾ പ്ലോട്ട് Vo പ്ലോട്ട് V പ്ലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്ലോട്ട് കോമ നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം തുടർന്ന് സ്റ്റാർട്ടപ്പ് മുതൽ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ കാണും തുടർന്ന് റിപ്പിൾസ് സൈദ്ധാന്തികമായി ചർച്ച ചെയ്തു നിങ്ങൾ ഒരുപക്ഷേ വൈദ്യുതി സ്രോതസ്സ് ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് പ്ലോട്ട് Vo എന്ന് പറയാം കൂടാതെ ഏത് ബ്രാഞ്ചിന്റെ കറന്റ് പ്ലോട്ട് ആണ് ബ്രാഞ്ച് V എന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം വൈദ്യുതി കാണാം ഇപ്പോൾ സോഴ്സിലൂടെയുള്ള വൈദ്യുതധാര എല്ലായ്പ്പോഴും വിപരീത ദിശയിൽ കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് മൈനസ് ആയി കാണിക്കുന്നത് നിങ്ങൾ കാണുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വൈദ്യുതി ഈ ദിശയിലാണ് ഒഴുകുന്നത് അതിനാൽ നിങ്ങൾ റിസോഴ്സ് ബ്രാഞ്ച് എടുക്കുമ്പോഴെല്ലാം അതിന്റെ മൈനസ് നൽകാം ഉദാഹരണത്തിന് പ്ലോട്ട് Vo 0 മൈനസ് I Vin എന്ന് നിങ്ങൾക്ക് പറയാം കറന്റിന്റെ ശരിയായ ദിശ ഇതായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പ്രാരംഭ സ്റ്റാർട്ടർ കറന്റ് സാധാരണ സ്റ്റഡി സ്റ്റേറ്റ് കറന്റിനേക്കാൾ കൂടുതലാണ് ഇതിനുശേഷം ക്വിറ്റ് ചെയ്യുക ശേഷം നിങ്ങൾ ഔട്ടാകും അതിനാൽ ഇത് ഒരു സിമുലേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നു ഈ ഘട്ടത്തിൽ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പോയിന്റുകളും നുറുങ്ങുകളും ഉണ്ട് ഇപ്പോൾ ng സ്പൈസ് ഉപയോഗിച്ച് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷമുള്ള സിമുലേഷന്റെ കാര്യത്തിൽ ng സ്പൈസ് പ്ലോട്ട് ng സ്പൈസ് റക്റ്റിഫയർ ഡോട്ട് cir മായി ഒരു പ്രശ്നമുണ്ട് ഇത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലോട്ട് നോക്കാം Vo നല്ല നിലവാരമുള്ള ഒരു പ്ലോട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് സമഗ്രമായി വികസിപ്പിക്കാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ഇത് പ്രത്യേക ഭാഗത്തേക്ക് സൂം ചെയ്യാനും കഴിയും ഇതിന്റെ സ്ക്രീൻ ക്യാപ്ച്ചർ ഷോട്ട് സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഡോക്യുമെന്റേഷനായി നിങ്ങൾക്ക് ഇത് എടുക്കാൻ കഴിയൂ ഇവയെല്ലാം സാധ്യമാണെന്നും നിങ്ങൾക്ക് വിപുലീകരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഡോക്യുമെന്റ് നിർമ്മിക്കുമ്പോൾ ഉയർന്ന മെമ്മറി ആയിരിക്കാം നിങ്ങൾ ഡോക്യുമെന്റ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറുത്ത പശ്ചാത്തലം ലഭിക്കും ഹാർഡ് കോപ്പി നേരിട്ട് പ്രിന്റ് ഔട്ടായി എടുക്കുന്നതിന് മാത്രമുള്ളതാണ് അതിനാൽ ഡോക്യുമെന്റേഷന്റെ ആവശ്യങ്ങൾക്ക് ഈ n g സ്പൈസ് പ്ലോട്ട് നിങ്ങൾ കാണുന്ന പോലെ അത്ര സുഖകരമല്ല അതിനാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ചില ഡോക്യുമെന്റേഷൻ ചെയ്യാൻ കഴിയില്ല അതൊരു പ്രശ്നമാണ് നമ്മൾ കണ്ട മറ്റൊരു പ്രശ്നം ഈ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കുന്ന സമയത്തുള്ളതാണ് അതിനാൽ സ്കീമാറ്റിക്കിൽ നിന്ന് ഞങ്ങൾ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ g net list dash g spice dash s d b എന്നിങ്ങനെയുള്ള കമാൻഡ് ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നാൽ ഓരോ തവണയും ടൈപ്പു ചെയ്യുമ്പോഴും നിങ്ങൾ സ്കീമാറ്റിക്കിൽ മാറ്റം വരുത്തണം നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യുകയും തുടർന്ന് നെറ്റ് ലിസ്റ്റ് ഡോട്ട് നെറ്റ് ഫയൽ സൃഷ്ടിക്കുകയും വേണം ഒരു സ്ക്രിപ്റ്റ് ഫയലിൽ ഇടുക തുടർന്ന് അത്തരം സിമുലേഷനായി അതിനെ പൊതുവായ രീതിയിൽ കോൾ ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനാൽ ഈ 2 പ്രശ്നങ്ങളും സംയോജിപ്പിച്ച് ഒക്ടേവ് ഉപയോഗിച്ച് ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുന്ന തരത്തിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ജനറേറ്റ് ചെയ്തു ഒരു സ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കി അതാണ് നിങ്ങൾ ആദ്യം പകർത്തി ഇവിടെ ബിൻ ഡയറക്ടറിയിൽ ഇട്ടത് അതിനാൽ ബിൻ ഡയറക്ടറിയിൽ അവസാന വിഭാഗത്തിൽ നമ്മൾ 6 ഫയലുകൾ കോപ്പി ചെയ്തു ഈ ഫോൾഡറിലേക്ക് ഇട്ടു ഇപ്പോൾ ആ q sim ഒരു ഒക്ടേവ് സ്ക്രിപ്റ്റാണ് അത് നെറ്റ് ലിസ്റ്റ് കമാൻഡ് സൃഷ്ടിക്കുന്ന ഈ നെറ്റ് ലിസ്റ്റ് കമാൻഡിന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നു കൂടാതെ ഒക്ടേവ് അല്ലെങ്കിൽ MATLAB തരം കമാൻഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തരംഗരൂപങ്ങൾ കാണിക്കാനും പിഡിഎഫ് ഫയലിന്റെ രൂപത്തിൽ ഒരു ഔട്ട്പുട്ട് നൽകാനും q sim അത് എന്തുചെയ്യും അത് സ്പൈസ് സിമുലേഷൻ ചെയ്യാനുള്ള നെറ്റ് ലിസ്റ്റ് എടുക്കും തുടർന്ന് സിമുലേഷന്റെ ഫലങ്ങൾ റോ ഫയലിലേക്ക് ഇടുകയും ഈ റോ ഫയൽ സ്പൈസ് റീഡ് ഫയൽ ആയ ഡോട്ട് m ഫയലായി ഒരു പാരാമീറ്ററായി സ്പൈസിലേക്ക് കൈമാറുകയും ചെയ്യും ഇത് ഡൌൺലോഡ് ചെയ്യാവുന്ന n g സ്പൈസിൽ നിന്ന് ലഭ്യമായ ഒരു ഓപ്പൺ സോഴ്സ് ടൂൾ ഫംഗ്ഷനാണ് എന്നാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാനാകുന്ന റിസോഴ്സിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇത് ഈ റോ ഫയൽ വായിക്കും തുടർന്ന് ഒക്ടേവിന്റെ gnu പ്ലോട്ട് പ്ലോട്ടിംഗിനായി ഉപയോഗിക്കുന്നു gnu പ്ലോട്ട് വളരെ ശക്തമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഔട്ട്പുട്ടുകളോ svg ഔട്ട്പുട്ടുകളോ ഉണ്ടാകാം അതിനാൽ ഇത് എഴുതിയ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഫയലാണ് ഇതിൽ മെച്ചപ്പെടുത്തുന്നതിന് ധാരാളം അവസരങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാൻ പോകുന്ന ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് ഫയൽ മാത്രമാണ് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയും ngSim യഥാർത്ഥത്തിൽ q sim ന് സമാനമാണ് അത് റക്റ്റിഫയർ ഡോട്ട് cir ഫയൽ ജനറേറ്റുചെയ്യുന്നു പക്ഷേ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പലതവണ മറക്കും അല്ലെങ്കിൽ നിങ്ങൾ a c ആയിരിക്കുമ്പോൾ സ്റ്റെപ്പ് സൈസ് അവസാനിക്കുന്ന സമയമാണിതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് ഒരു AC വിശകലനം അല്ലെങ്കിൽ അത് ബയസ് പോയിന്റ് വിശകലനം ആണെങ്കിൽ അവിടെയുള്ള മറ്റ് പല വിശകലനങ്ങളും നിങ്ങൾ മറന്നേക്കാം അതിനാൽ ആ ഭാഗം ചെയ്യാൻ ngSim നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ അതിലൂടെ പോകാനും അത് സുഖകരമാണോ എന്ന് നോക്കാനും ഞാൻ നിങ്ങളെ അനുവദിക്കും qsim ഉപയോഗിച്ച് ഞാൻ ഒരു ചെറിയ ഉദാഹരണം തരാം ഞങ്ങൾ DC DC ഫോൾഡറിലാണ് l എന്നതിനായുള്ള അതേ സ്ലാഷ് h ലൂടെ ഞാൻ പ്രവർത്തിക്കും അതിനാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുക അതിനാൽ നിങ്ങൾ ഇത് ഈ ഫോമിൽ നൽകണം സ്ലാഷ് h നിങ്ങൾക്ക് വിപുലീകരണമില്ലാതെ പ്രത്യേക സ്ക്രീൻ q sim ഫയലിന്റെ പേര് നൽകും അതിനാൽ q സിം റക്റ്റിഫയർ എന്ന ഡോട്ട് sch ഇല്ലാതെ q സിം റക്റ്റിഫയർ അത് ഉചിതമായ ഫയലുകൾ എടുക്കും നെറ്റ് ഫയൽ സൃഷ്ടിക്കും തുടർന്ന് ഒക്ടേവിന്റെ gnu പ്ലോട്ട് ഉപയോഗിക്കുന്ന n g സ്പൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫയലും ഇത് m dot m എന്ന സ്പൈസ് റീഡ് ഫയൽ വായിക്കും തുടർന്ന് അവയുടെ ഔട്ട്പുട്ടുകൾ പ്ലോട്ട് ചെയ്യാൻ ഒരു q plot dot m ഉപയോഗിക്കും അതിനാൽ ഈ രണ്ട് വാക്യഘടനകൾ ഉപയോഗിക്കേണ്ടതില്ലാത്ത ചില വാക്യഘടനകൾ ആണ് കാരണം g n u പ്ലോട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമാറ്റിന് ഒരു ഔട്ട്പുട്ട് നൽകും അതിനാൽ ഞാൻ q sim റക്റ്റിഫയർ പ്രവർത്തിപ്പിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ജനറേറ്റഡ് നെറ്റ് ഫയൽ ആവശ്യമില്ല അതിനാൽ ഞങ്ങൾ എന്തുചെയ്യും നിങ്ങൾ സ്കീമാറ്റിക്സ് ചെയ്തതിന് ശേഷം ഉടൻ ആവശ്യമില്ലാത്ത ഈ നെറ്റ് ഫയൽ ഞാൻ ഇല്ലാതാക്കും നിങ്ങൾക്ക് ഇത് ഉണ്ടായിരിക്കണം തീർച്ചയായും edit 0 1 dot sum q sim റക്റ്റിഫയർ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കും അത് ഒരു സിമുലേഷന്റെ എല്ലാ ഫലങ്ങളും അടങ്ങുന്ന ഒരു റോ ഫയൽ ഔട്ട്പുട്ട് ലിസ്റ്റ് സൃഷ്ടിക്കും ഇപ്പോൾ ഡിഫോൾട്ട് സമയം ഞാൻ ഇതിന് Vo എന്ന് നൽകുന്നു ഇവിടെ ഞാൻ കോമ സെപറേഷൻ ഇടണം Vin ലൂടെയാണ് കറന്റ് അതിനുള്ളിൽ എനിക്ക് Va minus Vb നൽകാം ഇതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കണം അതിനാൽ നിങ്ങൾ ഇത് ഈ gnu പ്ലോട്ട് ഔട്ട്പുട്ട് പോലെ കാണും നിങ്ങൾക്കിത് ഇവിടെ കാണാം ഒരു ഫയലിലേക്ക് സേവ് ചെയ്യാം ഇപ്പോൾ ഞാൻ test dot svg സേവ് ആയി സേവ് ചെയ്യും തുടർന്ന് ഞാൻ qsim ൽ നിന്ന് പുറത്തുവരുമെന്ന് പറയാം അതിനാൽ ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ഡോട്ട് svg ചെയ്യും അത് വെക്റ്റർ ഗ്രാഫിക് പാക്കേജ് പോലെയുള്ള ഏതെങ്കിലും ഗ്രാഫിക് പാക്കേജിലേക്ക് എടുക്കാൻ കഴിയും അത് ഇങ്ക് സ്കേപ്പ് അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും പാക്കേജുകൾ തുടർന്ന് നിങ്ങൾക്ക് കൂടുതൽ എഡിറ്റിംഗ് നടത്തുകയും തുടർന്ന് ഡോക്യുമെന്റേഷനിൽ ഇടുകയും ചെയ്യാം അതിനാൽ സ്കീമാറ്റിക്സ് ng സ്പൈസ് പ്ലോട്ട് ഔട്ടുകൾ എന്നിവയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു സമ്പൂർണ്ണ സിമുലേഷൻ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്